നാലു തലങ്ങൾ നോഎസ്ക്യൂഎൽ സിസ്റ്റത്തിൽ ഉണ്ട് അതിനെ ഓരോന്നിനെ കുറിച്ചും നമുക്ക് ചെറുതായി ചർച്ച ചെയ്യാം ഇതിനെ കുറിച്ച് കൂടുതൽ ഉള്ളത് നമുക്ക് ഈ കോഴ്സിന്റെ അടുത്ത ഭാഗത്തു നോക്കാം കാരണം അത് കുറച്ചു കൂടി വലുതാണ് അപ്പോൾ നാലു തലങ്ങൾ ഇവിടെ ഉണ്ട് ആദ്യത്തെത് കൊളംനാർ ഡേറ്റാ ബെസ് ഫാമിലി രണ്ടാമത്തെത് ബിഗ് ടേബിൾ സിസ്റ്റം മൂന്നാമത്തെത് ഡോക്യൂമെന്റ് ഡേറ്റാബെസ് നിങ്ങൾ ഈ പേരുകൾ കേട്ടിട്ടുണ്ടാകാം കേട്ടിട്ടിയില്ലായിരിക്കാം ഇത് ഇക്കാലത്ത് വളരെ പ്രശസ്തമായി വരികയാണ് അതിനാൽ നിങ്ങൾ ഈ പേരുകൾ കേട്ടിട്ട് ഉണ്ടാകും എന്തായാലും നാലാമത്തേത് ഗ്രാഫ് ഡേറ്റാബേസ് ഇനി നമുക്ക് ഇത് ഓരോന്നും നോക്കാം അപ്പോൾ ആദ്യത്തെത് കോളംനാർ സ്റ്റോറേജ് ആണ് അതിനെ കോളംനാർ ഫാമിലി എന്നും കോളംനാർ ഡേറ്റാ ബെസ് എന്നും വിളിക്കാം അടുത്ത കാര്യം എന്തെന്നാൽ DBMS ൽ ഡേറ്റയെ സൂക്ഷിക്കുന്നത് റോയിൽ ആണ് റോ എന്ന രീതിയിൽ ആണ് ഇതിൽ സൂക്ഷിക്കുന്നത് ഒരു സാധാരണ റിലേഷനൽ ടേബിളിനെ ആലോചിക്കുക അവിടെ ട്യൂപ്യൂൾ ഒന്ന് ഉണ്ട് അതിന് ആറ്റ്ട്രിബ്യൂട്ട് ഒന്നുണ്ട് പിന്നെ ആറ്റ്ട്രിബ്യൂട്ട് രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ ഇതിനെയെല്ലാം ഡിസ്കിൽ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഡിസ്ക് ഇവിടെ വൺ ഡൈമെൻഷണൽ ആണ് അതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെയെല്ലാം സൂക്ഷിക്കുന്നത് ട്രാക്കുകളിലോ സെക്ടറുകളിലോ ഒക്കെയാണ് ഒരു സെക്ടർ കഴിഞ്ഞ് അടുത്ത സെക്ടർ അങ്ങനെയങ്ങനെ അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്നു വച്ചാൽ ഓരോ ട്യൂപ്യൂളിനേയും എടുക്കുകയാണ് ആട്രിബൂട്ടുകളെയെല്ലാം അതിനകത്ത് സൂക്ഷിക്കുന്നു അതിനു ശേഷം അടുത്ത ട്യൂപ്യൂളിലെ ആട്രിബൂട്ടുകളെ സൂക്ഷിക്കുന്നു പിന്നെ മൂന്നാമത്തെ ട്യൂപ്യൂളിനെ എടുക്കുന്നു ഇതിനെയാണ് നമ്മൾ റോ അനുസരിച്ച് സൂക്ഷിക്കുക എന്നു പറയുന്നത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു നോർമൽ ഡേറ്റാബേസ് ടേബിൾ ആണ് എന്നാണ് ഇതെല്ലാം ട്യൂപ്യൂളുകൾ ആണ് ഇത് ട്യൂപ്യൂൾ 1 ഇത് ട്യൂപ്യൂൾ 2 ഇത് ആട്രിബ്യൂട്ട് 1 ആട്രിബ്യൂട്ട് 2 അങ്ങനെയങ്ങനെ അപ്പോൾ ഇതാണ് റോ ബേസ്ഡ് സ്റ്റോറേജ് ഇത് എന്താണ് ചെയ്യുന്നതെന്നു വച്ചാൽ ഇതിനെ സൂക്ഷിക്കുന്നു പിന്നെ ഇതിനെ സൂക്ഷിക്കുന്നു പിന്നെ ഇതിനെ പിന്നെ ഇതിനെ ഇതാണ് റോബേസ്ഡ് സ്റ്റോറേജ് അതേ സമയം കോളമ്നാർ ഫാമിലികളിൽ എന്താണ് ചെയ്യുന്നത് ഇതിനെ സൂക്ഷിക്കുന്നു പിന്നെ ഇതിനെ സൂക്ഷിക്കുന്നു പിന്നെ ഇതിനെ അങ്ങനെയങ്ങനെ അങ്ങനെ വരുമ്പോൾ എല്ലാത്തിനേയും ഇവിടെ ചെയ്യാൻ പറ്റും പിന്നെ അട്രിബ്യൂട്ട് 2 വിനെ സൂക്ഷിക്കുന്നു ഇതാണ് കോളംബേസ്ഡ് സ്റ്റോറേജ് അപ്പോൾ ഈ കോളം ബെയ്സ്ഡ് സ്റ്റോറേജിൽ ചെയ്യുന്നത് ആദ്യത്തെ ആട്രിബ്യൂടിലെ ട്യൂപ്യൂളുകളെയെല്ലാം സൂക്ഷിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആട്രിബ്യൂട്ട് ഒന്നിനെ എടുത്തു കഴിഞ്ഞു അത് ട്യൂപ്യൂൾ ഒന്നിലുള്ള മൂല്യങ്ങളാണ് പിന്നെ ട്യൂപ്യൂൾ രണ്ടിനെ സൂക്ഷിക്കുന്നു പിന്നെ ട്യൂപ്യൂൾ മൂന്ന് അങ്ങനെ അങ്ങനെ ഇത് അപ്പൊൾ ആട്രിബ്യൂട്ട് അടിസ്ഥാനമാക്കിയാണ് സൂക്ഷിക്കുന്നത് ഇതാണ് കോളം സ്റ്റോറേജ് ഇതു കൊണ്ട് ഇതിനെ കോളംനാർ ഫാമിലി അല്ലെങ്കിൽ കോളം ബെയ്സ്ഡ് സ്റ്റോറേജ് കോളംനാർ ഡേറ്റാ ബെയ്സ് എന്ന് പറയും അപ്പോൾ സൂക്ഷിക്കുന്നതിനുള്ള ആശയം ഇതാണ് ഇനി രണ്ടു കാര്യങ്ങൾ കൂടി പറയുവാനുണ്ട് സിങ്കിൾ ഡിസ്ക് ബ്ലോക്ക് ഈ കോളം ഫാമിലി എന്താണ് കോളം ഫാമിലിയിൽ കാര്യങ്ങൾ ഒരു കോളത്തിൽ ഒരു സമയം സൂക്ഷിക്കുന്നതിനു പകരം കോളങ്ങൾ എല്ലാത്തിനേയും ഒരു കൂട്ടമായി വച്ച് സൂക്ഷികുകയാണ് അപ്പോൾ കോളം ഫാമിലിയിൽ ഇതെല്ലാം ഒറ്റ ആയിട്ടാണ് സൂക്ഷിക്കുന്നത് അതായത് എല്ലാ ഡിസ്ക്ക് ബ്ലോകിലും ഒരു കോളം ഫാമിലി ആണ് ഉണ്ടാകുക അപ്പോൾ എല്ലാ ഡിസ്ക് ബ്ലോക്കുകളും ഒരു കോളം ഫാമിലിയെ ആയിരിക്കും സൂക്ഷിക്കുന്നത് ഇനി പുതിയ കോളം ഫാമിലി വരുകയാണെങ്കിൽ അതിനെ അടുത്ത ബ്ലോക്കിൽ ആയിരിക്കും വയ്ക്കുക ഇതാണ് കോളം ഫാമിലിയുടെ ആശയം അപ്പോൾ ഒരു കോളം അല്ലെങ്കിൽ ബന്ധമുള്ള ഒരു കൂട്ടം കോളങ്ങൾ ആയിരിക്കും ഉണ്ടാകുക ഇത് ഒന്നുകിൽ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആട്രിബ്യൂട്ടുകൾ ആയിരിക്കും അതിനെ കോളം ഫാമിലി എന്നു പറയാം ഈ ഒരു കൂട്ടം കോളങ്ങളെ നമുക്ക് ചിലപ്പോൾ സൂപ്പർ കോളം എന്നും പറയാം അപ്പോൾ ഈ കൂട്ടം കോളത്തെ നമ്മൾ സൂപ്പർ കോളം എന്നു പറയുന്നു ഉദാഹരണത്തിന് ഇത് ആട്രിബ്യൂട്ട് ഒന്ന് ഇത് ആട്രിബ്യൂട്ട് രണ്ട് ഇത് രണ്ടും ഒരു സൂപ്പർ ഫാമിലിയിൽ ആണ് ഉള്ളത് പിന്നെ ആട്രിബ്യൂട്ട് 3 ഈ ഫാമിലിയിൽ പിന്നെ ആട്രിബ്യൂട്ട് 4 ആട്രിബ്യൂട്ട് 5 ആട്രിബ്യൂട്ട് 6 എന്നിവ മറ്റൊരു സൂപ്പർ ഫാമിലിയിൽ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നു വച്ചാൽ ഇതിനെ സൂക്ഷിക്കുന്നു ഇത് ട്യൂപൂൾ 1 ഇതിനെ സൂക്ഷിക്കുന്നു പിന്നെ ഇത് പിന്നെ ഇത് ഇതിനു ശേഷം ഒരു പുതിയ ഡിസ്ക് ബ്ളോക്ക് തുടങ്ങുന്നു അതിൽ ഇതിനെ എടുക്കുന്നു ഇതിനെ സൂക്ഷിക്കുന്നു പിന്നെ ഇത് പിന്നെ ഇത് അങ്ങനെ അങ്ങനെ ഇത് പൂർത്തിയായതിനുശേഷം ഇതിനെ സൂക്ഷിക്കുന്നു കാരണം ഇതെല്ലാം ഒരേ കോളം ഫാമിലിയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ എല്ലാ ആട്രിബ്യൂട്ട്കളെയും ഒന്നിന് പിന്നാലെ ഒന്നായി സൂക്ഷിക്കുന്നു ഇതാണ് കോളം ഫാമിലി അല്ലെങ്കിൽ സൂപ്പർ കോളത്തിൻറെ ആശയം ഈ കോളംനാർ ഫാമിലി തന്നെ രണ്ടു തരത്തിലാണ് ഉള്ളത് ആദ്യത്തെത് കോളംനാർ റിലേഷൻൽ മോഡൽസ് രണ്ടാമത്തെത് കീ വാല്യൂ സ്റ്റോർ അതിനെ ബിഗ് ടേബിൾ എന്നും പറയുന്നുണ്ട് നമ്മൾ ഈ കോളം സ്റ്റോറേജ് എന്നു പറയുമ്പോൾ കോളം സ്റ്റോറെജിനെ നോഎസ്ക്യൂഎൽന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് കോളം സ്റ്റോറേജുകൾ റിലേഷനൽ മോഡൽ ആകാം ഇതുകൊണ്ടാണ് ഇതിനെ SQL മാത്രമല്ല എന്നു പറയുന്നത് കാരണം ഇത് റിലേഷണൽ മോഡലിന്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ NoSQL ഉം ആണ് NoSQL എന്നു പറയുമ്പോൾ അത് RDBMS അല്ല എന്നു വരുന്നില്ല കോളമ്നാർ സ്റ്റോറേജുകൾക്ക് RDBMS ഉം ആകാം അപ്പോൾ ഇത് റിലേഷണൽ മോഡലുകളും ആണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇത് RDBMS ആണ് ഇത് ഒന്നിനു പുറകെ ഒന്നായി സൂക്ഷിക്കുന്നു ഇനി കോളമ്നാർ റിലേഷണൽ മോഡലുകളിലുള്ള വേറെ രണ്ടു കാര്യങ്ങൾ എന്നാൽ ദാ ഇവിടെ ആട്രിബ്യൂട്ട് അടിസ്ഥാനത്തിൽ സൂക്ഷിക്കുമ്പോൾ ഇത് ആട്രിബ്യൂട്ടുകളെ ചെറുതാക്കാൻ അനുവദിക്കുന്നു അതു കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഇവിടെ ഒരുപാട് ടൂപ്യൂകളുകൾ ഉണ്ട് അവ ഒരേ ആട്രിബ്യൂട്ടുകളെ പങ്കു വയ്ക്കുന്നു ദാ 100 ടൂപ്യൂളുകൾ ഉണ്ട് അവ ഒരേ ആട്രിബ്യൂട്ടുകളെയാണ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നാൽ അട്രിബ്യൂട്ടിന്റെ ഒരു ജോടിയെ മാത്രമെ സൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളു അത് ട്യൂപ്യൂളുകളിൽ പങ്കുവച്ചു എന്ന് പറയുവാൻ സാധിക്കും അതിന്റെ ഐ ഡി ചിലപ്പോൾ 90 അല്ലെങ്കിൽ ഒന്നുതൊട്ട് 100 അല്ലെങ്കിൽ 213 തൊട്ട് 312 വരെ ആകാം ഇത് അപ്പോൾ ചുരുക്കാൻ അനുവദിക്കുന്നു ഈ ചുരുക്കൽ രണ്ടു കാര്യങ്ങളിൽ സഹായിക്കുന്നു ആദ്യത്തെത് വളരെ കുറച്ച് സ്റ്റോറേജ് മാത്രമേ ആവശ്യം വരുന്നുള്ളു കാരണം ഇവിടെ കാര്യങ്ങളെ ചുരുക്കുകയാണ് അതു പോലെ തന്നെ ഇതിന് പെട്ടെന്ന് ചോദ്യങ്ങളെ അനുവദിക്കുവാൻ സാധിക്കും ഇതാണ് ആ രണ്ടു കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് ചോദ്യങ്ങളെ പെട്ടെന്ന് അനുവദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തിനെയെങ്കിലുംക്കാളും വലിയ മൂല്യമുള്ള ട്യൂപൂൾകളെ കണ്ടു പിടിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു ട്യൂപൂളിനെ മാത്രം നോക്കിയാൽ മതി ബാക്കി 100 ട്യൂപൂൾകളെയും നമുക്ക് ഒരുമിച്ച് ഒഴിവാക്കാം ഇതാണ് ഇത് ചെയ്യുന്ന ഒരു രീതി ചുരുക്കൽ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗുണം ഇതാണ് ചുരുക്കി ഇല്ലെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകാറുണ്ട് ചുരുക്കി ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും അങ്ങനെ സംഭവിക്കുന്നത് ഒരു ആട്രിബ്യൂട്ടിൽ മാത്രം ചോദിക്കുമ്പോൾ ആണ് ഇത് നമുക്ക് കുറച്ചു കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചോദ്യം വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും അതായത് ഒരു റിലേഷനിൽ A നാലിനേക്കാൾ കൂടുതലായിട്ടുള്ളത് എല്ലാവരേയും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ട്യൂപ്യൂളുകളിലേക്ക് പോകും എന്നിട്ട് ആട്രിബ്യൂട്ട് A യിലേക്കു പോകും എന്നിട്ട് അത് ശരിയാണോ എന്നു നോക്കും ശരിയാണ് എന്നുണ്ടെങ്കിൽ ശരി എന്നു വരും അല്ലെങ്കിൽ അടുത്ത ട്യൂപ്യൂളിലോട്ട് പോകും എന്നിട്ട് A എന്ന ആട്രിബ്യൂട്ടിൽ നോക്കും പിന്നെ അങ്ങനെ പോകും അപ്പോൾ ഡിസ്ക്കിൽ എല്ലാ ആട്രിബ്യൂട്ട്കളിലോട്ടും ഇതുപോകും അല്ലാത്ത എല്ലാ വരെയും ഇവർ ഒഴിവാക്കും അവയെ പരിശോധിക്കുകയില്ല അത് കൂടുതൽ ബ്ലോക്കുകളെ പഠിക്കുവാനായി എടുക്കുന്നു ഇതാണ് ഞാൻ അവിടെ പറയുവാനായി ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഇത് ഒരു റോയാണ് ഇത് ആട്രിബ്യൂട്ട് A ആണ് എനിക്ക് ഇതിൽ താല്പര്യമുണ്ട് അതിനെ നമുക്ക് നാല് ബൈറ്റ് എന്ന് പറയാം ഇനി വേറെ ഒരു ഇരുപത് ബൈറ്റ് കൂടി ഉണ്ട് പിന്നെ 48 ബൈറ്റ്കളും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ A യെന്ന ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ വെറുതെ ഈ 68 ബൈറ്റ് പിന്നെ 48 20 ബൈറ്റ് എന്നിവ എല്ലാം നോക്കുന്നു അപ്പോൾ ഒരു ഡിസ്ക് ബ്ലോക്കിൽ അങ്ങനെ എത്ര ട്യൂപുളുകളെ സൂക്ഷിക്കുന്നുണ്ടാകും A യെന്ന ആട്രിബ്യൂട്ടിനെ ഇവിടെ ഒരു ഡിസ്ക് ബ്ലോക്കിൻറെ വലിപ്പം ആണ് അപ്പോൾ ഒരുപാട് ആട്രിബ്യൂട്ടുകളെ ഇവിടെ സൂക്ഷിക്കാം അപ്പോൾ അത്രയും A യെന്ന ആട്രിബ്യൂട്ടുകളെ ഈ ഒരു ഡിസ്ക് ബ്ലോക്കിൽ നിന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി ഇതിനെ കോളംനാർ രീതിയിലാണ് ചെയ്യുന്നത് എങ്കിൽ ട്യൂപുൾ 1 ൽ ഉള്ള ആട്രിബ്യൂട്ട് A യെ സൂക്ഷിക്കുന്നു പിന്നെ ട്യൂപുൾ 1 ൽ ഉള്ള ആട്രിബ്യൂട്ട് 2നെ സൂക്ഷിക്കുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു ഇതാണ് ആ നാല് ബ്ലോക്കുകൾ ഇവയെ എല്ലാം ഒരുമിച്ച് സൂക്ഷിക്കുന്നു ഇപ്പോൾ അങ്ങനെ എത്ര A കളെ ഇവിടെ സൂക്ഷിക്കാൻ ഒരു ബ്ലോക്കിൽ സാധിക്കും അത് ആണ് ഇത് ഒരു വലിയ സംഖ്യ ആണ് അപ്പോൾ ഇതിനെ ആട്രിബ്യൂട്ട് വഴി ആണ് സൂക്ഷിക്കുന്നത് എങ്കിൽ അത് ഫലപ്രദമാണ് കാരണം ഡിസ്ക് ബ്ലോക്കിന് തന്നെ ഒരുപാട് ട്യൂപുളുകളെയും ആട്രിബ്യൂട്ട്കളെയും പരിശോധിക്കാൻ സാധിക്കും അപ്പോൾ ഒരു ആട്രിബ്യൂട്ടിനെ ഒരുപാട് ട്യൂപ്യൂളുകളിൽ തെരഞ്ഞു നോക്കാൻ സാധിക്കും ഒരുപാട് ട്യൂപ്യൂളുകളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ അവയെ തെരഞ്ഞുകൊണ്ട് എടുക്കാൻ സാധിക്കും അതാണ് ഇതു കൊണ്ടുള്ള ഒരു ഗുണം പിന്നെ ഇത് പെട്ടെന്നുള്ള ജോയിൻസിനേയും സഹായിക്കും എന്താണ് ജോയിൻസ് അത് രണ്ട് കോളം ആയിരിക്കും ഒരു കോളം ടേബിൾ A യിൽ നിന്നും മറ്റൊരു കോളം ടേബിൾ B യിൽ നിന്നും ഇനി ഇത് നേരെ ടേബിൾ A യിലേക്ക് പോകും അടുത്ത ആട്രിബ്യൂട്ട് ടേബിൾ B യിലേക്ക് പോകും അപ്പോൾ ആട്രിബ്യൂട്ട് A ആദ്യത്തെ ടേബിളിലോട്ടും ആട്രിബ്യൂട്ട് B രണ്ടാമത്തെ ടേബിളിലിലേക്കും പോകും പിന്നെ കുറവ് ഡിസ്ക് ബ്ളോക്കുകളെ നമ്മൾ എഴുതുകയാണെങ്കിൽ അത്രയും കൂടുതൽ ജോയിന്റ്സുകളും ട്യൂപൂൾസുകളുമായിട്ട് ഉള്ള ജോയിന്റ്സിന്റെ അവസ്ഥയും പരിശോധിക്കുവാൻ സാധിക്കും അത് ആട്രിബ്യൂട്ട് A യുടെ മൂല്യങ്ങളും ആട്രിബ്യൂട്ട് B യുടെ മൂല്യങ്ങളും ചേരുന്നുണ്ടെങ്കിലേ നടക്കുകയുള്ളു പിന്നെ യഥാർത്ഥ ട്യൂപുൾകൾക്ക് ഔട്ട്പുട്ടിനെ കുറിച്ച് ശ്രദ്ധ കൊടുത്താൽ മതി അപ്പോൾ ജോയിന്റ്സും വേഗതയേറും ഇതൊക്കെയാണ് കോളംനാർ സ്റ്റോറേജിന്റെ ഗുണങ്ങൾ ഇനി ഇതിൽ കുറച്ച് അഹിതമായ കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതിലെ അപ്ഡേറ്റുകൾ ഗുണം ഇല്ലാത്തതാണ് അപ്ഡേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ട്യൂപ്യൂളിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ആട്രിബ്യൂട്ടിനെ ഇവിടെ ഉദ്ദേശിക്കുന്നു ഒന്നോ അതിൽ കൂടുതലോ ആട്രിബ്യൂട്ടുകളെ അപ്ഡേറ്റ് ചെയ്യാം ഉദാഹരണത്തിന് ഒരു ട്യൂപ്യൂളിന്റെ ഒരുപാട് ആട്രിബ്യൂട്ടുകളെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇനി ഒരു റോ ബെയ്സ്ട് സ്റ്റോറേജിന് എത്ര ബ്ളോക്കുകളെയാണ് ഈ മൊത്തം ട്യൂപൂളുകൾക്ക് വേണ്ടി വരുന്നത് ഇത് ഒരു ഡിസ്ക് ആണ് കാരണം ട്യൂപുൾകളെയെല്ലാം ഒരു ഒറ്റ ഡിസ്കിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി കോളം ഫാമിലിയുടെയും സൂപ്പർ കോളത്തിന്റെയും എണ്ണം എത്രയോ ആയിക്കൊട്ടേ അത്രയും ബ്ളാക്കുകളെ നോക്കണം ഇവിടത്തെ ആശയം ഇതാണ് അതായത് ഇത് റോ ബയ്സ്ഡ് സ്റ്റോറേജാണെങ്കിൽ ഈ മൊത്തം ട്യൂപുൾകളെയും ആട്രിബ്യൂട്ട് A യും ആട്രിബ്യൂട്ട് B യും ആക്കി വയ്ക്കുന്നു ഇനി ആട്രിബ്യൂട്ട് C എല്ലാവരെയും ഒരു ഒറ്റ ബ്ളോക്കിൽ സൂക്ഷിക്കുകയാണ് അപ്പോൾ ഇവിടെ 3 അപ്ഡേറ്റുകൾ ആണ് വേണ്ടത് ഈ ഒരു ട്യുപൂളിനെ ഡിസ്കിന്റെ മെമ്മറിയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത് ഇനി റോ ബെയ്സ്ഡ് സ്റ്റോറേജിൽ ഇത് ഒരു ബ്ളോക്ക് ഇത് മറ്റൊരു ബ്ളോക്ക് കാരണം ഈ മറ്റൊരു ബ്ളോക്കിൽ ഇതേ തരത്തിലുള്ള ആട്രിബ്യൂട്ട്കൾ ആണ് വരുന്നത് വേറെ ആട്രിബ്യൂട്ട്കൾ അല്ല ഈ ആട്രിബ്യൂട്ട്കളും അതേ തരത്തിലുള്ളവയാണ് ഇനി മൂന്നാമത്തെ ആട്രിബ്യൂട്ട് അടുത്ത ബ്ളോക്കിലാണ് ഉള്ളത് അപ്പോൾ ഇതിന് 3 ബ്ളോക്കുകൾ ആണ് ആവശ്യം ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇനി ഇത് റോയ്ക്ക് അകത്താണ് ഇത് കോളത്തിനകത്തും അപ്പോൾ അപഡേറ്റുകൾ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്കളെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ വേഗത കുറവായിരിക്കും ഇത് കോളംനാർ ഫാമിലിയിലും കോളംനാർ ഡേറ്റാ ബെയ്സിലും നടക്കുന്നു അതു പോലെ തന്നെ ക്വയറി അല്ലെങ്കിൽ ജോയിൻ ഒരുപാട് ആട്രിബ്യൂട്ട്കളെ തൊടുകയാണെങ്കിൽ അതിലും വേഗതയുണ്ടാകാറില്ല അത് എന്തുകൊണ്ട് ആണ് എന്നറിയില്ല ചിലപ്പോൾ അത് വേഗത കുറവായിട്ടുള്ള മറ്റു പരാമീറ്ററുകളെ ആശ്രയിച്ചിരുപ്പുണ്ടായിരിക്കും കാരണം ഇത് വീണ്ടും ട്യൂപൂളിനെ എടുക്കുവാൻ നോക്കും ഇനി ആ ഒരു മൂല്യം മുന്നോട്ടുപോകും എന്നു കണ്ടാൽ അത് അടുത്ത ഡിസ്ക് ബ്ളോക്കിൽ ചെന്നിട്ട് ഇതെ ട്യുപൂൾളിന്റെ ആട്രിബ്യൂട്ടിനെ എടുക്കുവാൻ നോക്കും എന്നിട്ട് ഇങ്ങനെ മുന്നോട്ടു പോകും അപ്പോൾ ഇത് വേഗത ഉള്ളത് ആകാം ആകാതിരിക്കാം അപ്പോൾ ഒരുപാട് ആട്രിബ്യൂട്ട്കളെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് വേഗത ഉണ്ടാകുകയില്ല ഈ ഒരു ആൽഗോരിഗത്തെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് അതായത് പല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും അതേ സമയം തന്നെ ട്യൂപൂൾളിന്റെ ഐഡി യെയും അതുപോലത്തെ കാര്യങ്ങളെയും കൈവശപ്പെടുത്തുകയും ചെയ്യുന്നത് ഇനി കോമേഴ്ഷ്യൽ ഡേറ്റാബെയ്സിൽ രണ്ടു വാക്കുകൾ ഉണ്ട് ഈ കോളംനാർ ഫാമിലിയിൽ കോളംനാർ കാര്യങ്ങളും ഒഎൽഎപിക്ക് നല്ലതാണ് അതേ സമയം ഒഎൽറ്റിപിക്ക് നല്ലതല്ല ഇതു രണ്ടുമാണ് പുതിയ രണ്ടു വാക്കുകൾ OLAP എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺ ലൈൻ അനലിറ്റികൽ പ്രോസ്സസിങ്ങ് അല്ലെങ്കിൽ അനലിറ്റിക് പ്രോസ്സസിങ്ങ് ഇത് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസ്സസിങ്ങ് അപ്പോൾ ഒലാപും ഒഎൽറ്റിപിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒഎൽറ്റിപി എന്നത് ട്രാൻസാക്ഷനാണ് ഓരോ അപഡേറ്റുകളെ ഇതു നടത്തുന്നു അല്ലെങ്കിൽ ഡേറ്റാ ബെയ്സിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം അപ്ഡേറ്റ് ചെയ്യും ഉദാഹരണത്തിന് ഒരു ട്യൂപൂൾ അല്ലെങ്കിൽ രണ്ട് ട്യൂപൂൾകൾ അങ്ങനെ ഉള്ളവ അതായത് അക്കൌണ്ട് A അക്കൌണ്ട് ബി അക്കൌണ്ട് A യെ അപ്ഡേറ്റ് ചെയ്യുന്നു പിന്നെ അക്കൌണ്ട് B ട്യൂപൂളിനെ അപ്ഡേറ്റ് ചെയ്യുന്നു ഈ ട്രാൻസാക്ഷനുകൾ വളരെ ചെറിയ ഭാഗങ്ങളെ മാത്രമാണ് തൊടുന്നത് പക്ഷെ അവ ഈ കാര്യങ്ങളുടെ ഒരുപാട് ആട്രിബ്യൂട്ട്കളെ തൊടുന്നുണ്ട് അപ്പോൾ ഇതിന് കോളംനാർ ഫാമിലി നല്ലതല്ല ഇവിടെ കോളംനാർ ഫാമിലി ഉടൻ ചെയ്യുന്നില്ല കാരണം റിലേഷനൽ ഡേറ്റബെയ്സിൽ കുറച്ചു കൂടി വേഗത്തിൽ ചെയ്യുവാൻ സാധിക്കും ഈ ഓൺ ലൈൻ അനാലിറ്റികൽ പ്രോസ്സസിങ്ങിൽ എന്തു സംഭവിക്കും എന്നു വച്ചാൽ ഉദാഹരണത്തിൽ ഒരു കാര്യത്തിന്റെ സംമ്മറി നമ്മൾ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ എല്ലാ അക്കൌണ്ടിന്റെയും ബാലൻസിന്റെ ആവറേജ് നോക്കും അപ്പോൾ റിലേഷനൽ ഡേറ്റാബെയ്സ് അതായത് സാധാരണ ഉപയോഗിക്കുന്ന റോ ബെയ്സ്ഡ് റിലേഷനൽ ഡേറ്റാബെയ്സ് കോളംനാർ ഡേറ്റാബെയ്സിനെ വച്ച് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ സമയമെടുക്കും കാരണം ഇത് കോളത്തെ കുറച്ചു കൂടി വേഗത്തിൽ എടുക്കുവാൻ ശ്രമിക്കും അപ്പോൾ ഇതിന് ഈ സമ്മറിയും അഗ്രിഗേഷൻ ഓപ്പറേഷനും വേഗത്തിൽ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇതാണ് രണ്ട് അംഗീകൃതമായ പദങ്ങൾ OLAP OLTP ഇനി റിലേഷണൽ ഡേറ്റാബേസിൽ ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മോണറ്റ് ഡിബി ഇതിനെ മറക്കരുത് ഇത് കോളംനാർ റിലേഷണൽ ഡേറ്റാബേസിൻറെ ഉദാഹരണമാണ്